എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇനി കോസ്റ്റ് ബെനിഫിറ്റ് അനല്യ്സിസിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ നോക്കാം സിബി അനല്യ്സിസിന്റെ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ കണ്ടു അതിനാൽ ശേഷിക്കുന്ന മറ്റ് രണ്ട് ഘട്ടങ്ങൾ നമ്മൾ ആദ്യം കാണും തുടർന്ന് റിസ്ക് ഇവാലുവേഷൻ കാണും അതിനാൽ സിബി അനല്യ്സിസിന്റെ അവസാന രണ്ട് ഘട്ടങ്ങൾ അനല്യ്സിസിന്റെ ഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ഉചിതമായ നടപടി കൈക്കൊള്ളുകയും ചെയ്യുന്നു നമ്മൾ ഇതിനകം തന്നെ തിരഞ്ഞെടുത്തു കോസ്റ്റ് ബെനെഫിറ്റ് ഇവാലുവേഷൻ രീതികൾ ചർച്ചചെയ്തു തുടർന്ന് സാഹചര്യത്തെ ആശ്രയിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉചിതമായ കോസ്റ്റ് ബെനെഫിറ്റ് ഇവാലുവേഷൻ രീതി തിരഞ്ഞെടുക്കണം അതിനാൽ ആ കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷനോ അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനല്യ്സിസിനോ ശേഷം പ്രോജക്റ്റ് ഫലം ശരിയായി വ്യാഖ്യാനിക്കണം പദ്ധതിയുടെ കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷൻ അവസാനിച്ചതിനുശേഷം ഫലങ്ങൾ വ്യാഖ്യാനിക്കണം ഫലങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് യഥാർത്ഥ ഫലങ്ങളെ സ്റ്റാൻഡേർഡിനോ മറ്റേതെങ്കിലും ബദൽ നിക്ഷേപത്തിന്റെ ഫലത്തിനോ താരതമ്യം ചെയ്യേണ്ടതുണ്ട് വ്യാഖ്യാനവും തീരുമാന ഘട്ടങ്ങളും വളരെ ആത്മനിഷ്ഠമായ സ്വഭാവമാണ് അവയ്ക്ക് തീരുമാനവും പ്രോജക്റ്റ് മാനേജരുടെ അവബോധ ശേഷിയും ആവശ്യമാണ് അനിശ്ചിതത്വത്തിന്റെ തോത് അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർക്ക് രണ്ട് സാധ്യതകൾ നേരിടാം ഒന്നുകിൽ അറിയപ്പെടുന്ന ഒരൊറ്റ മൂല്യമോ എൻപിവി പോലുള്ള വ്യത്യസ്ത മെറ്റീരിയലുകൾക്കായുള്ള മൂല്യങ്ങളുടെ ഒരു ശ്രേണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നെറ്റ് പ്രോഫിറ്റ് മുതലായവയോ ഉപയോഗിച്ച് നേരിടേണ്ടിവരും രണ്ടിടത്തും ഇത് ഒരൊറ്റ മൂല്യമുള്ള കേസാണോ അല്ലെങ്കിൽ എൻപിവി അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആർഒഐ എന്താണെന്നതിന്റെ മൂല്യങ്ങളുടെ ഒരു ശ്രേണിയാണെങ്കിലും ലളിതമായ ലാഭകരമായ എന്തായാലും നെറ്റ് പ്രോഫിറ്റ് അനാല്യ്സിസ് മുതലായവ ഉപയോഗിക്കാം മറ്റ് സങ്കീർണ്ണ സങ്കേതങ്ങളും നടപ്പിലാക്കാൻ എളുപ്പമാണ് നിക്ഷേപത്തിന്റെ സമയ മൂല്യം കണക്കിലെടുക്കാത്ത പ്രോഫിറ്റ് അനാല്യ്സിസിന്റെ പോരായ്മ നമുക്കറിയാമെങ്കിൽ ഇത് പരിഷ്കരിക്കാമെങ്കിൽ പണത്തിന്റെ സമയ മൂല്യം ഉൾപ്പെടുത്തുന്നതിനായി ഇത് പരിഷ്കരിക്കാൻ കഴിയുമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് രീതി അത് ഇന്നത്തെ മൂല്യവുമായി താരതമ്യപ്പെടുത്താം പക്ഷേ എൻപിവി പോലെയുള്ള ചില സാങ്കേതികത പ്രയോഗിക്കാനോ നടപ്പിലാക്കാനോ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ആ ഫലങ്ങളെല്ലാം വിശകലനം ചെയ്ത ശേഷം ഫലങ്ങൾ വ്യാഖ്യാനിച്ചതിന് ശേഷം നമ്മൾ ഉചിതമായ നടപടി കൈക്കൊള്ളണം പ്രോജക്ട് മാനേജർ ഉചിതമായ നടപടി കൈക്കൊള്ളണം അതിനാൽ ഫലങ്ങൾ വ്യാഖ്യാനിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനമോ നടപടിയോ എടുക്കണം ഇത് തീരുമാനമെടുക്കുന്നത് സ്വഭാവത്തിൽ വളരെ ആത്മനിഷ്ഠമാണ് ഇത് പ്രോജക്ട് മാനേജർമാരെ അല്ലെങ്കിൽ കണക്കാക്കിയ ചെലവിലും ആനുകൂല്യങ്ങളിലും അന്തിമ ഉപയോക്തൃ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു നിക്ഷേപത്തിന്റെ വ്യാപ്തി അന്തിമ തീരുമാനം അല്ലെങ്കിൽ നടപടി ഉപയോക്താവിന് ഏറ്റവും ചെലവു കുറഞ്ഞതും പ്രയോജനകരവുമായ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതിനാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ്ന്റെ അന്തിമ പ്രവർത്തനം ഉപയോക്താവിന് ഏറ്റവും ഉചിതമായതും ചെലവേറിയതും പ്രയോജനകരവുമായ ഒരു സംവിധാനം തിരഞ്ഞെടുക്കുക എന്നതാണ് തുടർന്ന് ഒരു പ്രോജക്റ്റ് മാനേജർ പ്രധാന കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്ന സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് നിർദ്ദേശിച്ച ശുപാർശകൾ ഫലങ്ങൾ വ്യാഖ്യാനിച്ചതിന് ശേഷം അന്തിമ നടപടി സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണ് അതിനാൽ ഇത് സിബി അനല്യ്സിസിനെ കുറിച്ചുള്ള കാര്യമാണ് പക്ഷേ സിബി അനാല്യ്സിസിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് സിബി അനാല്യ്സിസിന് നിരവധി പരിമിതികളുണ്ട് ഒന്നാമത് മൂല്യനിർണ്ണയ പ്രശ്നങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള വിലയും ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചിലവ് ആനുകൂല്യങ്ങൾ എന്നിവയുടെ പ്രത്യേക വിഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരം ഇൻടാൻജിബിൽ കോസ്റ്റും ബെനെഫിട്ടും അളക്കാനും തിരിച്ചറിയാനും വളരെ പ്രയാസമാണ് അവ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും കോസ്റ്റ് ബെനെഫിറ്റ് അനല്യ്സിസിന്റെ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണിത് അത് ഇൻടാൻജിബിൽ കോസ്റ്റും ഇൻടാൻജിബിൽ ബെനെഫിട്ടുമാണ് അവ തിരിച്ചറിയാൻ പ്രയാസമാണ് ഏത് അളവിലും ബുദ്ധിമുട്ടാണ് മറ്റൊരു പ്രശ്നം അറിയാം ഡിസ്ടോർഷൻ പ്രശ്നങ്ങൾ സിബി അനല്യ്സിസിന്റെ ഫലങ്ങളിൽ രണ്ട് രീതികൾ വളച്ചൊടിക്കുന്നു ഒന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ ബദലിനെ മന പൂർവ്വം അനുകൂലിക്കുക ഡാറ്റ അപൂർണ്ണമാകുമ്പോൾ അല്ലെങ്കിൽ വിശകലനത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഇവ രണ്ടും ഉചിതമായ നടപടി എടുക്കാൻ പ്രയാസമാണ് അടുത്ത പ്രശ്നം ഇവിടെ സമ്പൂർണ്ണ പ്രശ്നമാണ് സിബി അനല്യ്സിസുമായി ബന്ധപ്പെട്ട ചെലവ് ഉയർന്ന ഭാഗത്തായിരിക്കാം കണക്കാക്കിയ ചെലവ് അവർ യഥാർത്ഥ വിലയെ പ്രതിനിധീകരിക്കുന്നില്ലായിരിക്കാം ഉയർന്ന ഭാഗത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ അവയുടെ കണക്കാക്കിയ ചെലവ് മതിയാകില്ല അല്ലെങ്കിൽ വേണ്ടത്ര ചെലവ് കണക്കാക്കില്ല പ്രോജക്ട് മാനേജുമെന്റ് മാനേജർ മതിയായ ചെലവ് പരിഗണിച്ചിരിക്കില്ല പൂർണ്ണമായ വിശകലനം നടത്തുന്നു അതിനാൽ ഇത് സിബി അനാല്യ്സിസിന്റെ സാധ്യമായ പരിമിതികളാകാം ബിസിനസ്സ് കേസിലെ ഉള്ളടക്കങ്ങൾ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രോജക്റ്റിനും ചിലതരം അപകടസാധ്യതകളുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു ഉള്ളടക്കം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത രണ്ട് തരത്തിലുള്ള അപകടസാധ്യതകളുണ്ട് ഒന്ന് പ്രോജക്റ്റ് അപകടസാധ്യതകൾ മറ്റൊന്ന് ബിസിനസ്സ് അപകടസാധ്യതകൾ വിജയകരമായ പ്രോജക്റ്റ് നിർവ്വഹണത്തിനുള്ള പൂർത്തീകരണ ഭീഷണികളുമായി ബന്ധപ്പെട്ട ബിസിനസ്സ് അപകടസാധ്യതകൾ നിങ്ങൾക്കറിയാമെങ്കിലും ബിസിനസ് റിസ്ക്കുകൾ ഡെലിവർ ചെയ്ത പ്രോജക്റ്റിന്റെ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്ന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ബിസിനസ്സ് കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിസിനസ്സ് അപകടസാധ്യതകളിലാണ് ബിസിനസ്സ് അപകടസാധ്യതകൾ എങ്ങനെ വിലയിരുത്താമെന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും പ്രോജക്റ്റ് അപകടസാധ്യതകൾ പിന്നീട് ചർച്ചചെയ്യും റിസ്ക് ഇവാലുവേഷൻ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ബിസിനസ്സ് അപകടസാധ്യതകൾ അതിനാൽ റിസ്ക് ഐഡന്റിഫിക്കേഷൻ റാങ്ക് റാങ്കിംഗ് എന്നിവയെക്കുറിച്ച് നമ്മൾ കാണും തുടർന്ന് റിസ്ക് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ അപകടസാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് രീതി തുടർന്ന് റിസ്ക് പ്രൊഫൈൽ അനാല്യ്സിസ് തീരുമാന വീക്ഷണങ്ങൾ എന്നിവ ഈ റിസ്ക് കൈകാര്യം ചെയ്യലിനെക്കുറിച്ചും റാങ്കിംഗിനെക്കുറിച്ചും നമുക്ക് പെട്ടെന്ന് പറയാം അതിനാൽ ഇവിടെ ഏത് പ്രോജക്റ്റ് മൂല്യനിർണ്ണയത്തിലും നമ്മൾ ആദ്യം അപകടസാധ്യതകൾ തിരിച്ചറിയണം അതിനാൽ ഏതെങ്കിലും പദ്ധതി വിലയിരുത്തൽ കൈകാര്യം ചെയ്യും മുമ്പ് നാം വേണം അപകട൦ ആദ്യം തിരിച്ചറിയാൻ എന്നാൽ അവയുടെ ഇഫക്റ്റുകൾ എങ്ങനെ അത് പ്രോജക്റ്റ് റിസ്ക് മെട്രിക്സ് നിർമ്മിക്കുന്നതാണ് അവയുടെ ഫലങ്ങൾ ഒരു പ്രത്യേക തരം മെട്രിക്സ് നിർമ്മിക്കും അത് പ്രോജക്റ്റ് റിസ്ക് മെട്രിക്സ് എന്നറിയപ്പെടുന്നു ഇത് സാധ്യമായ അപകടസാധ്യതകളുടെ ഒരു ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കും അതിനാൽ ആ മെട്രിക്സിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള അപകടസാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അപകടസാധ്യതകളെ അവയുടെ ആപേക്ഷിക പ്രാധാന്യത്തിനും സാധ്യതയ്ക്കും അനുസരിച്ച് തരംതിരിക്കേണ്ടതുണ്ട് ഈ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത എന്താണ് അതിനുശേഷം ആ റിസ്കിന്റെ പ്രാധാന്യം എന്താണ് ഇത് ബിസിനസിനെ എത്രത്തോളം ബാധിക്കും അത് ബിസിനസിനെ എത്രത്തോളം തടസ്സപ്പെടുത്തും അതിനാൽ അതാണ് പ്രാധാന്യം ഉയർന്നതിന് എച്ച് എന്നും ഇടത്തരം എം എന്നും താഴ്ന്നതിന് എൽ തുടങ്ങിയ മൂല്യങ്ങൾ നൽകാം പ്രാധാന്യം ഉയർന്നതും പ്രാധാന്യം ഇടത്തരവും ആകാം അല്ലെങ്കിൽ പ്രാധാന്യം സമാനമായി കുറവായിരിക്കാം ഇത് സംഭവിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാധ്യത ഉയർന്നത് താഴ്ന്നതോ ഇടത്തരമോ ഉയർന്നതോ ഇടത്തരം അല്ലെങ്കിൽ താഴ്ന്നതോ ആകാം അതിനാൽ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ മെട്രിക്സിൽ പ്രധാനമായും സാധ്യമായ തരത്തിലുള്ള അപകടസാധ്യതകൾ അടങ്ങിയിരിക്കും തുടർന്ന് ആപേക്ഷിക പ്രാധാന്യവും സാധ്യതയും ഉപയോഗിച്ച് നമ്മൾ തരംതിരിക്കേണ്ടതുണ്ട് സംസാരിക്കേണ്ട കാര്യം അപകടസാധ്യതകളുടെ പ്രാധാന്യവും അപകടസാധ്യതകളുടെ സാധ്യതയും വെവ്വേറെ വിലയിരുത്തേണ്ടതുണ്ട് അവ ഒരുമിച്ച് പരിഗണിക്കുന്നവ പ്രത്യേകമായി വിലയിരുത്തപ്പെടരുത് കാരണം ഗൌരവമുള്ളതും എന്നാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ എന്തെങ്കിലും അല്ലെങ്കിൽ ചില അപകടസാധ്യതകളെക്കുറിച്ച് ആശങ്കപ്പെടാൻ നമ്മളെ അനുവദിച്ചേക്കാമെന്ന് കാണുക അതിനാൽ ചിലതരം അപകടസാധ്യതകൾ അവ വളരെ ഗുരുതരമാണ് പക്ഷേ അവ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ഗൌരവതരമായിരിക്കില്ല പക്ഷേ വളരെ കുറച്ച് ഗുരുതരമായ അപകടസാധ്യതകളുണ്ട് വളരെ കുറഞ്ഞ ഗുരുതരമായ അപകടസാധ്യതകളുണ്ട് അവയുടെ പ്രഭാവം അവയുടെ പ്രാധാന്യം വളരെ കുറവാണ് പക്ഷേ സംഭവിക്കാനിടയുള്ള സാധ്യത ഏതാണ്ട് അടിസ്ഥാനമാക്കിയുള്ളതാണ് 90 ശതമാനം പേർ പറയുന്നു അതിനാൽ ഇതിനെക്കുറിച്ച് നാം വളരെയധികം ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഒരു മികച്ച റിട്ടേൺ നൽകുന്ന ഒരു പ്രോജക്റ്റ് എ ഉണ്ടെന്ന് പറയുക പക്ഷേ ഇത് വളരെ അപകടസാധ്യതയുള്ളതാകാം നാം അതിനെ വ്യത്യസ്തമായി പരിഗണിക്കണം അതുപോലെ മറ്റൊരു പ്രോജക്റ്റ് ബി ആകാം അത് വളരെ കുറഞ്ഞ വരുമാനം നൽകാം പക്ഷേ അപകടസാധ്യത കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ നിങ്ങൾ ചർച്ചചെയ്യേണ്ടതുണ്ട് അപകടസാധ്യതയെ അവയുടെ പ്രാധാന്യത്തെ തരംതിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് മെട്രിക്സ് നിർമ്മിക്കേണ്ടതുണ്ട് അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിനായി ഓരോ പ്രോജക്റ്റിനും ഒരു പ്രോജക്റ്റ് മെട്രിക്സ് ഉപേക്ഷിക്കാമെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അപകടസാധ്യതകളുടെ പ്രാധാന്യവും അപകടസാധ്യത സംഭവിക്കാനുള്ള സാധ്യതയും രണ്ട് പ്രധാന ഘടകങ്ങളായി നമ്മൾ പരിഗണിക്കുന്നു സാധ്യമായ അപകടസാധ്യതകൾ എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് പിന്നെ അവയുടെ പ്രാധാന്യം എന്താണ് അവയുടെ സാധ്യത എന്താണ് അതിനാൽ ഇവിടെ നമ്മൾ ഒരു ഇ കൊമേഴ്സ് അപ്ലിക്കേഷനായി ഈ ഉദാഹരണം എടുത്തിട്ടുണ്ട് ക്ലയന്റ് പ്രൊപ്പോസ് ലുക്കും സൈറ്റിന്റെ രൂപവും ഭാവവും നിരസിക്കുന്നതുപോലെ അപകടസാധ്യത ഉണ്ടാകാം കാരണം ജിയുഐ ഭാഗം വളരെ മികച്ചതല്ല അതിനാൽ ക്ലയന്റ് അത് സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം നിരസിച്ചു വ്യക്തമായും പ്രാധാന്യം വളരെ ഉയർന്നതായിരിക്കും പക്ഷേ സാധ്യത ഈ ഡാഷ് ലൈൻ എന്നതിനർത്ഥം ഇത് സാധ്യതയില്ല അത് സംഭവിക്കാൻ സാധ്യതയില്ല അതുപോലെ വില കുറയ്ക്കുന്ന എതിരാളികൾക്കും സംഭവിക്കാം അത് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ വളരെ ഉയർന്നതാണ് അതിനാൽ പ്രാധാന്യം ഉയർന്നതും സാധ്യത ഇടത്തരവുമാണ് വർദ്ധിച്ച ആവശ്യകതയെ നേരിടാൻ വെയർഹൌസിന് കഴിയില്ല പ്രാധാന്യം ഒരു മാധ്യമമാണ് സാധ്യതയും കുറവാണ് അതിനാൽ ഓൺലൈൻ പേയ്മെന്റിന് സുരക്ഷാ പ്രശ്നമുണ്ട് അത് സംഭവിച്ചേക്കാം പ്രാധാന്യം ഒരു ഇടത്തരം സാധ്യതയും ഇടത്തരവും ആണ് കൂടാതെ അറ്റകുറ്റപ്പണി ചെലവ് കണക്കാക്കിയതിനേക്കാൾ കൂടുതലായിരിക്കാം ഇത് പ്രാധാന്യമാണ് ഇത് ബിസിനസിനെ ബാധിക്കുന്നത് കുറവാണ് സാധ്യത കുറവാണ് അത് കുറവാണ് അതിനാൽ പ്രതികരണ സമയ നിർണ്ണയം വാങ്ങുന്നവരിൽ ക്ഷീണം വരുത്തുന്നു ഇത് വിശകലനം ചെയ്ത ചില പഠനങ്ങളിൽ നിന്ന് ഇടത്തരം സാധ്യതയുള്ള മാധ്യമമാണ് അതിനാൽ അപകടസാധ്യതകളെ തരംതിരിക്കുന്നതിന് ഏതൊരു പ്രോജക്റ്റിനും ഈ രീതിയിൽ അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിന് അപകടസാധ്യതകളുടെ പ്രാധാന്യവും സാധ്യതയും പരിഗണിച്ച് നമ്മൾ ഒരു പ്രോജക്റ്റ് റിസ്ക് മെട്രിക്സ് നിർമ്മിക്കേണ്ടതുണ്ട് അവ സംഭവിക്കുന്ന അപകടസാധ്യതകൾ ആണ് അടുത്തതായി റിസ്കുകളും നെറ്റ് പ്രേസേന്റ്റ് വാല്യൂവിന്റെ അടുത്ത രീതി കാണും ഒരു പ്രോജക്റ്റ് താരതമ്യേന അപകടസാധ്യതയുള്ളിടത്ത് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ കണക്കാക്കാൻ ഉയർന്ന ഡിസ്കൌണ്ട് റേറ്റ് ഉപയോഗിക്കുന്നത് ഒരു പതിവാണ് അതിനാൽ അവസാന ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ കണക്കാക്കുമ്പോൾ 5 ശതമാനം 8 ശതമാനം 10 ശതമാനം 12 ശതമാനം അല്ലെങ്കിൽ 15 ശതമാനം കാര്യങ്ങൾ പോലുള്ള വ്യത്യസ്ത ഡിസ്കൌണ്ട് റേറ്റ് നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത് താരതമ്യേന അപകട സാധ്യതയുള്ളതാണ് പിന്നെ നമ്മൾ എന്തുചെയ്യണം നിലവിലെ മൂല്യം കണക്കാക്കുന്നതിനു ഉയർന്ന ഡിസ്കൌണ്ട് റേറ്റ് ഉപയോഗിക്കേണ്ടത് ഒരു സാധാരണ രീതിയാണ് ഉദാഹരണത്തിന് ഈ റിസ്ക് പ്രീമിയം ന്യായമായ സുരക്ഷിതമായ പ്രോജക്റ്റുകൾക്ക് 2 ശതമാനം അധികമായിരിക്കാം അതിനാൽ ഒരു പ്രോജക്റ്റ് ന്യായമായ സുരക്ഷിതമാണെങ്കിൽ ഈ ഡിസ്കൌണ്ട് റേറ്റ്നായി 2 ശതമാനം അധികമായി നമ്മൾ ഉപയോഗിച്ചേക്കാം പക്ഷേ പ്രോജക്റ്റ് തികച്ചും അപകടസാധ്യതയുള്ള ഒന്നാണെങ്കിൽ ഈ ഡിസ്കൌണ്ട് റേറ്റ്ന്റെ 5 ശതമാനം അധികമായി പരിഗണിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ 10 ശതമാനം സാധാരണ ഡിസ്കൌണ്ട് റേറ്റ് പരിഗണിക്കുകയാണ് അതിനാൽ ഒരു പ്രോജക്റ്റ് ന്യായമായും സുരക്ഷിതമാണെങ്കിൽ ഡിസ്കൌണ്ട് റേറ്റ്നെ 12 ശതമാനമായി കണക്കാക്കാം പക്ഷേ പ്രോജക്റ്റ് വളരെ അപകടസാധ്യതയുള്ള ഒന്നാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് നിങ്ങൾ ഡിസ്കൌണ്ട് റേറ്റ് 15 ശതമാനമായി എടുക്കണം പ്രോജക്റ്റുകളെ ഉയർന്നതായി തരംതിരിക്കാം അതിനാൽ മുമ്പത്തെ സമീപനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ മെട്രിക്സ്നെ പരിഗണിക്കുന്നു അതിനാൽ അതുപോലെ തന്നെ നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ പരിഗണിക്കുമ്പോൾ സ്കോറിംഗ് രീതി ഉപയോഗിച്ച് പ്രോജക്ടുകളെ ഉയർന്ന ഇടത്തരം അല്ലെങ്കിൽ കുറഞ്ഞ അപകടസാധ്യതകളായി തരംതിരിക്കാം കൂടാതെ ഓരോ വിഭാഗത്തിനും നിയുക്തമാക്കിയ റിസ്ക് പ്രീമിയങ്ങളും ചില ഫോർമുല ഉപയോഗിച്ചുള്ള സ്കോറിംഗ് രീതി അല്ലെങ്കിൽ ചില തൂക്കങ്ങളും അപകടസാധ്യതകളും ഉപയോഗിച്ച് ഓരോ വിഭാഗവും നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് പ്രീമിയങ്ങളും കാരണം ഇത് വളരെ ഉയർന്നതാണെങ്കിൽ റിസ്ക് പ്രോജക്റ്റ് 15 ശതമാനം പോലെ കണക്കാക്കാം ഉദാഹരണത്തിന് 5 ശതമാനം അധികമായി 15 ശതമാനം എന്തായിരിക്കാം പ്രീമിയം റിസ്ക് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൌണ്ട് റേറ്റ് ഇത് ഒരു ഇടത്തരം റിസ്ക് പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചേക്കാവുനത് 13 ശതമാനമോ അതിൽ കൂടുതലോ ആകാം ഇതിൽ എന്ത് ഡിസ്കൌണ്ട് റേറ്റ് വളരെ താഴ്ന്ന ഒന്ന് നമുക്ക് 11 ശതമാനം അല്ലെങ്കിൽ 12 ശതമാനം ഡിസ്കൌണ്ട് റേറ്റ് എടുക്കാം തുടർന്ന് നമുക്ക് അവയെ തരംതിരിക്കാം അതിനാൽ പ്രീമിയങ്ങൾ നിങ്ങൾ ഏകപക്ഷീയമായി പരിഗണിക്കുന്നുണ്ടെങ്കിൽപ്പോലും നിങ്ങൾ അവ അനിയന്ത്രിതമായി എടുത്തിട്ടുണ്ടെങ്കിൽപ്പോലും എന്നാൽ അവ റിസ്കുകൾ കണക്കിലെടുക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു മാർഗ്ഗം നൽകുന്നു പ്രോജക്റ്റുകൾ വിലയിരുത്തുന്നതിനായി കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് നമ്മൾ നേരത്തെ കണ്ടു അപകടസാധ്യതകളെ വിലയിരുത്തുന്നതിനായി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് നിങ്ങൾ കാണും അതിനാൽ അതുപോലെ തന്നെ അപകടസാധ്യതകളുടെ ആഘാതം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് ഉപയോഗിക്കാം അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിനുള്ള കൂടുതൽ സങ്കീർണമായ സമീപനമാണിത് അതിനാൽ കണക്കാക്കാനുള്ള സാധ്യമായ ഓരോ ഫലങ്ങളും ഇവിടെ കണക്കാക്കുന്നു കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് അനുസരിച്ച് സാധ്യമായ ഓരോ ഫലങ്ങളും നമ്മൾ പരിഗണിക്കും മാത്രമല്ല ഇത് സംഭവിക്കുന്നതിന്റെ സാധ്യതയും ഫലത്തിന്റെ അനുബന്ധ മൂല്യവും നമ്മൾ കണക്കാക്കും അനുബന്ധ മൂല്യം നമുക്ക് എത്രത്തോളം ലഭിക്കും ഒരു ക്യാഷ് ഫ്ലോവിനേക്കാൾ ഇവിടെ ഒരു പ്രോജക്റ്റിനായി ഒരൊറ്റ ക്യാഷ് ഫ്ലോ പ്രവചനം എടുക്കുന്നതിനുപകരം ക്യാഷ് ഫ്ലോ പ്രവചനം സജ്ജമാക്കിയിരിക്കാം അവിടെ ഓരോന്നും ബന്ധപ്പെട്ടിരിക്കുന്നിടത്ത് ഓരോന്നും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഓരോ പ്രവചനവും ശരി ഓരോ പ്രവചനവും സംഭവിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കാം പ്രോജക്റ്റുകളുടെ മൂല്യം ചിലവ് സംഗ്രഹിച്ചുകൊണ്ട് നേടാം അല്ലെങ്കിൽ സാധ്യമായ ഓരോ ഫലത്തിന്റേയും ആനുകൂല്യങ്ങൾ അനുബന്ധ പ്രോബബിലിറ്റിയാണ് അതിനാൽ സാധ്യമായ ഓരോ ഫലത്തിനും എന്ത് വിലയാണ് അല്ലെങ്കിൽ പ്രയോജനം എന്ന് നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുക്കും തുടർന്ന് ഓരോന്നിനും നിങ്ങൾ എന്ത് പ്രോബബിലിറ്റി നൽകും അതിനാൽ ഈ സാധ്യതയ്ക്കൊപ്പം ഈ വിലയും നമ്മൾ വർദ്ധിപ്പിക്കണം പ്രോജക്റ്റിന്റെ മൂല്യം കണക്കാക്കുന്നത് സാധ്യമായ ഓരോ ഫലത്തിന്റേയും വിലയോ ആനുകൂല്യമോ സംഗ്രഹിച്ചാണ് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം എന്നിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഇത് സിബി അനാല്യ്സിസിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിനാൽ കമ്പോളത്തെക്കുറിച്ചുള്ള പഠനം കാണിക്കുന്നത് കമ്പനിക്ക് ഇത് കാര്യക്ഷമമായി ടാർഗെറ്റു ചെയ്യാനും മത്സരിക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും ലഭ്യമാകാനും കഴിയുന്നില്ലെങ്കിൽ അത് 800000 ഡോളറിന്റെ വാർഷിക വരുമാനത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉയർന്ന തലത്തിലുള്ള വിൽപ്പന നേടും 10 ൽ 1 സാധ്യതയുണ്ടെന്ന് ഇത് കണക്കാക്കുന്നു ഇത് സംഭവിക്കാനുള്ള 10 ശതമാനം സാധ്യതകൾ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും ഒരു എതിരാളി സമാരംഭിച്ചേക്കാം ഇത് സ്വന്തമായി സമാരംഭിക്കുന്നതിനുമുമ്പ് ഇതുപോലുള്ള മറ്റൊരു മത്സര ആപ്ലിക്കേഷൻ തുടർന്ന് ഈ വിൽപ്പന വർഷത്തിൽ 100000 ഡോളർ മാത്രം വളരെ കുറഞ്ഞ തുക സൃഷ്ടിച്ചേക്കാം ഇത് സംഭവിക്കാൻ 30 ശതമാനം സാധ്യതയുണ്ടെന്ന് ഇത് കണക്കാക്കുന്നു അപ്പോൾ ഇതാണ് അങ്ങേയറ്റത്തെ കേസ് അതിനാൽ ഏറ്റവും മികച്ചത് 800000 ത്തിന്റെ വാർഷിക വരുമാനമാണ് അതേസമയം ഏറ്റവും മോശം കേസ് പ്രതിവർഷം 100000 ഡോളർ ഇവിടെ ഏറ്റവും മികച്ച അവസരം 10 ശതമാനമാണ് ഏറ്റവും മോശം സാധ്യത 30 ശതമാനമാണ് ഏറ്റവും സാധ്യതയുള്ള ഫലം ഈ രണ്ട് അങ്ങേയറ്റത്തെ അതിരുകൾക്കിടയിലായിരിക്കും അതായത് 800000 നും 100000 നും ഇടയിൽ ഏറ്റവും സാധ്യതയുള്ള ഫലം ഈ രണ്ട് അതിരുകടന്ന ഇടങ്ങൾക്കിടയിലാണ് അതിനാൽ അത് നേടും അതിനർത്ഥം അത് അങ്ങനെ നേടും സർവേ പ്രകാരം ഏതെങ്കിലും മത്സര ഉൽപ്പന്നം ലഭ്യമാകുന്നതിനുമുമ്പ് സമാരംഭിച്ച് വിപണി മുൻതൂക്കം നേടുകയും 650000 ഡോളറിന്റെ വാർഷിക വരുമാനം നേടുകയും ചെയ്യും ഇത് 800000 നും 100000 നും ഇടയിലാണ് പ്രതീക്ഷിക്കുന്ന വിൽപന പ്രകാരം മാര്ക്കറ്റ് സ്റ്റഡി അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന വിൽപ്പന വരുമാനം അടുത്ത പട്ടികയില് കാണിച്ചിരിക്കുന്നു ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ വാർഷിക വരുമാനം ഏറ്റവും മികച്ചത് 800000 ആയിരിക്കും ഇവിടെ പ്രോബബിലിറ്റി 10 ശതമാനമാണ് അത് മറ്റൊരു എതിരാളിയാണെങ്കിൽ അത് ഏറ്റവും മോശം അവസ്ഥയായിരിക്കും അവിടെ വാർഷിക വരുമാനം 100000 ഉം പ്രോബബിലിറ്റി 30 ശതമാനവുമാണ് അതിനാൽ കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസിൽ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ എന്തു ചെയ്യും പ്രോജക്ടിന്റെ മൂല്യം വരുമാനത്തിൽ സാധ്യമായ ഓരോന്നിനും വിലയോ ആനുകൂല്യമോ സംഗ്രഹിക്കുന്നതിലൂടെ അത് കണക്കാക്കുന്നത് അനുബന്ധ പ്രോബബിലിറ്റിയാണ് അതിനാൽ ഇവയാണ് വാർഷിക വരുമാനത്തിന്റെ മൂല്യങ്ങൾ എന്ന് നിങ്ങൾ കാണണം ഇതാണ് അവയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇവയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ഇതിന് ചുറ്റുമുണ്ടാകും അതിനാൽ ഈ പ്രശ്നത്തിന് പ്രതീക്ഷിക്കുന്ന വരുമാനം 500000 ഇപ്പോൾ എത്രയാണെന്ന് കണ്ടെത്താനാകും വികസനച്ചെലവ് 750000 ആയി കണക്കാക്കപ്പെടുന്നു വിൽപ്പന നില കുറഞ്ഞത് 4 വർഷമെങ്കിലും സ്ഥിരമായിരിക്കും അറ്റകുറ്റപ്പണി തുടങ്ങിയവയുടെ വാർഷിക ചിലവ് 200000 മായി കണക്കാക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ പ്രോജക്റ്റിനെയോ കമ്പനിയുമായി പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപദേശിക്കുമോ എന്നതാണ് ചോദ്യം ഇനി നമുക്ക് വിശകലനം ചെയ്യാം അതിനാൽ ഉപദേശം എന്തായിരിക്കും പ്രതീക്ഷിക്കുന്ന വരുമാനം 500000 ആണ് അതിനാൽ വിൽപ്പന നില 4 വർഷത്തേക്ക് സ്ഥിരമായിരിക്കുമെന്നും അറ്റകുറ്റപ്പണി പോലുള്ള വാർഷിക ചെലവുകൾ 200000 ആണെന്നും നമ്മൾക്കറിയാം ഇപ്പോൾ എന്താണ് കണ്ടെത്തുന്നത് 4 വർഷത്തിനുള്ളിൽ 500000 ന്റെ പ്രതീക്ഷിച്ച വിൽപന പ്രതീക്ഷിക്കുന്ന വരുമാനം എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നതെന്താണ് പ്രയോജനം ആകെ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്തായിരിക്കും മൊത്തം വരുമാനം അതിനാൽ 500000 ന്റെ 4 ലേക്ക് 200000 ന്റെ മൈനസ് വാർഷിക പരിപാലനച്ചെലവ് എന്താണ് പ്രതിവർഷം 200000 എത്ര വർഷത്തേക്ക് ഇത് പ്രവർത്തിപ്പിക്കും അതിനാൽ 4 വർഷം 200000 മൈനസ് 4 സോറി 200000 4 ലേക്ക് 800000 അതിനാൽ 200000 മൈനസ് 800000 എത്രയായിരിക്കും 1200000 അതിനാൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന 1200000 വികസനച്ചെലവ് 750000 ഡോളറാണ് എന്താണ് നിക്ഷേപം എന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യമോ പ്രതീക്ഷിച്ച വിൽപ്പന ആനുകൂല്യമോ 1200000 ഡോളറായിരിക്കുമെന്നും നിക്ഷേപം 750000 ഡോളറാണെന്നും നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ഇത് ഒരു നല്ല വരുമാനമാണ് അതിനാൽ കമ്പനി ഈ പ്രോജെക്ട്മായി പോകും എന്നാൽ മറുവശം കാണുക അതാണ് വെര്സ്റ്റ് കേസ് വിൽപന കുറവാണെങ്കിൽ മറ്റൊരു എതിരാളി ഉണ്ടെങ്കിൽ എന്തുസംഭവിക്കും അത് പണം നഷ്ടപ്പെടും അവസരം ഇതിനകം 30 ശതമാനമാണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഒരു പ്രധാന തുകയാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ലഭിക്കും കമ്പനിക്ക് 30000 മാത്രമേ ലഭിക്കൂ കാരണം വാർഷിക വിൽപ്പന വരുമാനം 100000 ആയിരിക്കുമെന്നും പ്രോബബിലിറ്റി 30 ശതമാനമാണെന്നും കാണുക അതിനാൽ പ്രതീക്ഷിക്കുന്ന മൂല്യം 30000 വളരെ കുറഞ്ഞ മൂല്യമായിരിക്കും ഇത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു കാരണം സാധ്യത 30 ശതമാനമാണ് മാത്രമല്ല കമ്പനി പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതിനാൽ അപകടസാധ്യതയുള്ള ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് ഉചിതമല്ല ഈ രീതിയിൽ അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിനായി കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് നടത്താം അടുത്തതായി പരിമിതികൾ അതാണ് പ്രോബബിലിറ്റി എങ്ങനെ നൽകാം 10 ശതമാനം 20 ശതമാനം 30 ശതമാനം അതിനാൽ സംഭവിക്കാനുള്ള സാധ്യത നിർണ്ണയിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് അത് ഏറ്റവും മോശം അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായി കണക്കിലെടുക്കുന്നില്ല ഇത് ശരാശരി കേസ് സാഹചര്യത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഏറ്റവും മോശം സാഹചര്യങ്ങൾ ഇത് കണക്കിലെടുക്കുന്നില്ല അതിനാൽ ഇത് ശരാശരി കേസ് സാഹചര്യങ്ങൾ എടുത്തേക്കാമെന്ന് കണ്ടെത്തിയേക്കാം പക്ഷേ ഏറ്റവും മോശം സാഹചര്യങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നില്ല ഇനി ഈ റിസ്ക് പ്രൊഫൈൽ വിശകലനം അതാണ് അടുത്ത രീതി സിബി വിശകലനത്തിന്റെ ചില പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണിത് അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിന് സെൻസിറ്റീവ് വിശകലനം ഉപയോഗിച്ച് ഒരു റിസ്ക് പ്രൊഫൈൽ നിർമ്മിക്കുക അതിനാൽ സിബി വിശകലനത്തിന്റെ ചില പ്രശ്നങ്ങൾ മറികടക്കും ഈ തന്ത്രപ്രധാന വിശകലനത്തിന്റെ ഫലങ്ങൾ പഠിക്കുന്നതിലൂടെ പദ്ധതിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് അവയിൽ മികച്ച നിയന്ത്രണം ചെലുത്താൻ കഴിയുമോ അല്ലെങ്കിൽ അവയുടെ ഫലങ്ങൾ ലഘൂകരിക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പഠനത്തിലൂടെ പ്രോജക്ടിന്റെ വിജയത്തിന് ഏതെല്ലാം ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ഘടകങ്ങളിൽ മികച്ച നിയന്ത്രണം ചെലുത്താനാകുമോ അതോ അവയുടെ ഫലങ്ങൾ ലഘൂകരിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങളും സാധ്യമല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ അപകടസാധ്യതകളോടെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് റിസ്ക് പ്രൊഫൈൽ വിശകലന രീതി പ്രവർത്തിക്കുന്നത് അടുത്തതായി ഇത് വേഗത്തിൽ നോക്കാം ഇത് ഡിസിഷൻ ട്രീസ് ഉപയോഗിച്ച് അപകടസാധ്യതകൾ വിലയിരുത്തുന്നു അതിനാൽ ബി ടെക് കരിയറിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഡിസിഷൻ ട്രീസ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപകടസാധ്യതകൾ വിലയിരുത്തുന്നതിനും ഈ ഡിസിഷൻ ട്രീസ് ഉപയോഗിക്കാം മുമ്പത്തെ സമീപനങ്ങൾ പ്രോജക്റ്റ് മാനേജർമാർ സ്റ്റാൻഡറുകളാൽ നിഷ്ക്രിയരാണെന്ന് അനുമാനിക്കുന്നു അവർ പ്രകൃതിയെ സ്വീകരിക്കാൻ അനുവദിക്കുന്ന നിഷ്ക്രിയ കാഴ്ചക്കാരാണ് സ്വന്തം ഉദ്ധരണികൾ അതിനർത്ഥം അപകടസാധ്യതയുള്ള പ്രോജക്റ്റുകൾ നിരസിക്കാനോ റിസ്ക് പ്രൊഫൈൽ ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ പ്രോജക്ട് മാനേജർക്ക് മാത്രമേ കഴിയൂ അതിനാൽ അപകടസാധ്യത കുറവുള്ളവർ മാത്രമേ എടുക്കാവൂ അത് കൂടുതൽ അപകടസാധ്യതയുള്ള പ്രോജക്ട് മാനേജർ മാത്രമാണ് ആ പ്രോജക്റ്റുകളെ നിരസിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ അപകടസാധ്യത പ്രധാനമാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് അനുയോജ്യമായ ഒരു പ്രവർത്തന ഗതി നിങ്ങൾ തീരുമാനിക്കും എല്ലായ്പ്പോഴും നമ്മുക്ക് അപകടസാധ്യതയുള്ള പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കാൻ കഴിയില്ല അവ കൈകാര്യം ചെയ്യണം അതിനാൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യണം ചിലപ്പോൾ അപകടസാധ്യതകളുടെ പ്രാധാന്യത്തെ ആശ്രയിച്ച് ഉചിതമായ ചില നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് അതിനാൽ അത്തരം തീരുമാനങ്ങൾ ഭാവി ഓപ്ഷനെ പരിമിതപ്പെടുത്തുകയോ ബാധിക്കുകയോ ചെയ്യും ഈ തീരുമാനങ്ങൾ ഭാവിയിലെ ഓപ്ഷനുകളെ ബാധിക്കും തീരുമാനങ്ങൾ ഭാവിയിലെ ലാഭകരമായ പ്രോജക്റ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തേണ്ടത് പ്രധാനമാണ് നിലവിൽ ഒരു പ്രോജക്റ്റിൽ റിസ്ക് ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇത് എങ്ങനെ ബാധിക്കും അതിനാൽ ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഡിസിഷൻ ട്രീകൾ പ്രയോജനകരമാണ് ഡിസിഷൻ ട്രീ എങ്ങനെ നിർമ്മിക്കാമെന്ന് വേഗത്തിൽ കാണാം വീണ്ടും ഞാൻ ഒരു ലളിതമായ ഉദാഹരണം എടുത്തു ഓർഡർ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് സിസ്റ്റമാണ് എപ്പോൾ മാറ്റിസ്ഥാപിക്കേണ്ടതെന്ന് ഒരു കമ്പനി പരിഗണിക്കുന്നു അതിനാൽ നിലവിൽ ഒരു കമ്പനി സ്വമേധയാ പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ അത് മാറ്റിസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയാകാം അതിനാൽ തീരുമാനം അത് വിപുലീകരിക്കുന്ന ബിസിനസ്സ് നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് മാർക്കറ്റ് ഷെയർ വർദ്ധനവാണെങ്കിൽ നിലവിലുള്ള സിസ്റ്റം രണ്ട് വർഷത്തിനുള്ളിൽ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് എന്നാൽ നിലവിലുള്ള സിസ്റ്റത്തെ കമ്പനി യഥാസമയം മാറ്റിസ്ഥാപിക്കുന്നില്ലെങ്കിൽ ഇത് വിലകൂടിയ ഓപ്ഷനായിരിക്കാം വിൽപന വർദ്ധിക്കുന്നതിനെ നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ അത് നഷ്ടമായ വരുമാനത്തിലേക്ക് നയിച്ചേക്കാം സിസ്റ്റം ഉടനടി മാറ്റിസ്ഥാപിക്കുന്നത് വളരെ ചെലവേറിയതായിരിക്കും ഇപ്പോൾ ഇത് മാറ്റിസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഒന്നാണ് എന്നാൽ വിപുലീകരിക്കുന്ന കേസ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് 75000 ഡോളറിന്റെ എൻപിവി ഉണ്ടായിരിക്കുമെന്ന് നോക്കാം മാർക്കറ്റ് വികസിക്കുകയാണെങ്കിൽ ഇത് 100000 എൻപിവി ഉപയോഗിച്ച് നഷ്ടമായി മാറും അതിനാൽ ഇത് 100000 ആണെന്ന് കരുതുന്നു ഇവിടെ ഇത് നെഗറ്റീവ് അടയാളമാണ് കാരണം ഇത് നഷ്ടപ്പെട്ട വരുമാനം മൂലമുള്ള നഷ്ടമാണ് മാർക്കറ്റ് വികസിപ്പിക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന് പകരമായി 250000 ഡോളറിന്റെ ഒരു എൻപിവി ഉണ്ടാകും കാരണം വിൽപന വർദ്ധിപ്പിക്കുന്നതും മറ്റ് മെച്ചപ്പെടുത്തിയ എംഐഎസ് സിസ്റ്റം മുതലായവ പോലുള്ള ആനുകൂല്യങ്ങളും വിൽപന വർദ്ധിക്കുന്നില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഗണ്യമായി കുറയും കൂടാതെ 500000 ഡോളറോ അതിലധികമോ ഡോളറിന്റെ എൻപിവി ഉപയോഗിച്ച് പ്രോജക്ടിന് കഷ്ടപ്പെടേണ്ടിവരും ക്ഷമിക്കണം 50000 അതിനാൽ വിപണിയിൽ ഗണ്യമായി 20 ശതമാനം വർദ്ധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി കണക്കാക്കുന്നു വിപണി വർദ്ധിക്കുന്നതിനുള്ള സാധ്യത 20 ശതമാനമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് മിക്കവാറും 20 ശതമാനം അതിനാൽ വിപണിയിൽ വർദ്ധനവുണ്ടാകില്ല എന്നതിന്റെ സാധ്യത 80 ശതമാനമാണ് ഇപ്പോൾ ഡിസിഷൻ ട്രീ നിർമ്മിക്കുകയും ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണം ഞാൻ ഇവിടെ വിവരിച്ച പ്രശ്നം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഡിസിഷൻ ട്രീ നിർമ്മിക്കാൻ കഴിയും ഇവയാണ് മൂല്യങ്ങൾ ഇവയാണ് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞ പ്രോബബിലിറ്റി വളരെയധികം വിപണി വികസിക്കാനുള്ള സാധ്യത 20 ശതമാനമാണ് അതിനാൽ മിക്കവാറും അതിന്റെ 80 ശതമാനമായി വികസിപ്പിക്കില്ല ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെ പറയാൻ കഴിയും കാരണം ഇത് നിലവിലുള്ള സിസ്റ്റമാണ് നിലവിലുള്ള സിസ്റ്റം വിപുലീകരിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള സിസ്റ്റത്തെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും എന്ന് കമ്പനി ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്ന ഡിസിഷൻ ട്രീ വിശകലനം ചെയ്യേണ്ടതുണ്ട് തീരുമാനത്തിൽ നിന്ന് ഓരോ പാതയും എടുക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്ന നേട്ടം വിശകലനം ഉൾക്കൊള്ളുന്നു അതിനാൽ ഇതാണ് ഡിസിഷൻ പോയിന്റ് ഡി ഡിയിൽ നിന്ന് ഓരോ പാതയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇത് ഒരു പാതയാണ് ഇത് മറ്റൊരു പാതയാണ് നമുക്ക് ഓരോ പാതയെയും വിലയിരുത്തുകയോ ചെയ്യാം ഓരോ പാതയുടെയും പ്രതീക്ഷിച്ച മൂല്യം നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താനാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഓരോ പാതയുടെയും പ്രതീക്ഷിച്ച മൂല്യം കണ്ടെത്താനാകുന്നത് സാധ്യമായ ഓരോ ഫലങ്ങളുടെയും മൂല്യങ്ങളുടെ ആകെത്തുക കൊണ്ട് ഗുണിച്ചാൽ അത് ഗുണിതമാണ് പ്രതീക്ഷിക്കുന്നതിന്റെ മൂല്യം നീട്ടുന്ന ആദ്യ കേസ് നമുക്ക് നോക്കാം ഇപ്പോൾ സിസ്റ്റം വിപുലീകരിക്കുന്നതിന്റെ പ്രതീക്ഷിച്ച മൂല്യം വിപുലീകൃത കേസ് ഇതാണ് വിപണി വിപുലീകരണം സംഭവിക്കുകയാണെങ്കിൽ എൻപിവി നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ മൈനസ് 100000 പ്രോബബിലിറ്റി 20 ശതമാനം മാർക്കറ്റ് അങ്ങനെ വികസിക്കുന്നില്ലെങ്കിൽ 80 ശതമാനം പ്രോബബിലിറ്റിയും 75000 ഉം പ്രതീക്ഷിച്ച മൂല്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് 75000 സാധ്യതയിലേക്ക് എത്രത്തോളം വരും 0 8 മൈനസ് എന്ത് 100000 മുതൽ 0 2 വരെ ഈ മൂല്യം എത്ര 40000 ആയിരിക്കും അതിനാൽ ഈ പാത ഏത് 40000 എടുക്കും ഇത്രയധികം മൂല്യമുള്ള 40000 രൂപയിലേക്ക് 40000 അതുപോലെ സിസ്റ്റം മാറ്റിസ്ഥാപിക്കുന്നതിന്റെ പ്രതീക്ഷിത മൂല്യം ഇത് മാറ്റിസ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ കഴിയും എന്നതാണ് മാറ്റിസ്ഥാപിച്ചാൽ വിപണി വികസിക്കുകയാണെങ്കിൽ മൂല്യം 250000 ആണെന്ന് കാണാം വിപണി വികസിക്കുന്നില്ലെങ്കിൽ പ്രോബബിലിറ്റി 20 ശതമാനമാണ് 50000 നഷ്ടവും പ്രോബബിലിറ്റി 80 ശതമാനവുമാണ് നമുക്ക് അത് വിലയിരുത്താൻ കഴിയും ഇത് 2 50000 ആയി 0 2 മൈനസ് 50000 ആയി 0 8 എന്നത് 10000 ആയി വരും അതിനാൽ ഈ പാത ഇപ്പോൾ ഈ പാതയുടെ മൂല്യം 10000 ആയിരിക്കും ഈ മൂല്യത്തിലേക്ക് 10000 ആണ് 10000 മുതൽ 10000 വരെ ഈ മൂല്യമായി വരുന്നു രണ്ട് മൂല്യങ്ങളും അങ്ങനെ താരതമ്യം ചെയ്താൽ ഈ സാഹചര്യത്തിൽ ലാഭം പരമാവധി ആയിരിക്കും അതിനർത്ഥം ഇത് സിസ്റ്റത്തെ മാറ്റിസ്ഥാപിക്കാതെ സിസ്റ്റത്തെ വിപുലീകരിക്കുന്നു അതിനാൽ സിസ്റ്റം മാറ്റിസ്ഥാപിക്കുന്നതിനുപകരം നിലവിലുള്ള സിസ്റ്റം വിപുലീകരിക്കുന്നതിനുള്ള ഓപ്ഷൻ കമ്പനി തിരഞ്ഞെടുക്കണം കാരണം സിസ്റ്റം ശരിയായി മാറ്റിസ്ഥാപിക്കുന്നതിനേക്കാൾ സിസ്റ്റം വിപുലീകരിക്കുന്ന സാഹചര്യത്തിൽ പ്രയോജനം കൂടുതലായിരിക്കും അതിനാൽ സിബി വിശകലനത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ ആദ്യം കണ്ടത് വ്യത്യസ്തമാണെന്ന് കണ്ടു തുടർന്ന് വ്യത്യസ്ത തരം അപകടസാധ്യതകൾ എന്താണെന്ന് കണ്ടു അപകടസാധ്യതകൾ എങ്ങനെ വിലയിരുത്താം വ്യത്യസ്ത റിസ്ക് വിലയിരുത്തൽ രീതികൾ നമ്മൾ ചർച്ചചെയ്തു അതിനാൽ ഇത് വ്യത്യസ്ത തരം റിസ്ക് വിലയിരുത്തൽ സാങ്കേതികതകളെക്കുറിച്ചാണ് നമ്മൾ എടുത്ത രേഫെരെൻസസ് ഇവയാണ് വളരെയധികം നന്ദി